ഇതാണ് എന്റെ ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ എനിക്ക് കിട്ടിയ ഇക്വേഷൻ കൊണ്ട് നമുക്ക് തുടങ്ങാം എന്റെ ഫങ്ക്ഷൻ എന്ത് പോലെ ആയിരിക്കും അതായത് ഓമേഗയുടെ മുകളിൽ അതാണ് ഇടത് വശത്തു നടക്കാൻ പോവുന്നത് എവിടെയാണ് T എല്ലാം ഇവിടെയാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ പോവുന്നത് ഈ ഇന്റഗ്രൽ 2 എലമെന്റ്സ് മേലെ ആണ് എന്നതാണ് അത്കൊണ്ട് എനിക്ക് ഇതിനെ വിഭജിച്ച് ഇന്റഗ്രൽ ഓവർ aintegral over aഇന്റഗ്രൽ ഓവർ bintegral overbഎന്നാക്കാം എന്ത്കൊണ്ട് കാരണം എനിക്ക് ഇവിടെ കിട്ടിയ T രണ്ടിലും നോൺ സീറോ ആണ് അത് കൊണ്ട് എനിക്ക് ഇത് എന്ന് എഴുതാം ഇതുവരെ നമ്മൾ H നെ H ആയാണ് കണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് H നെ ഈ അടിസ്ഥാന ഫങ്ക്ഷന്സ് ന് വിധേയമായി മാറ്റണം അത്കൊണ്ട് അടിസ്ഥാന ഫങ്ക്ഷൻസ്ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും H ഏതെങ്കിലും ത്രികോണത്തിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും പോയിന്റ് ൽ ആയിരിക്കും H H എന്നത് T യുടെ ലീനിയർ കോമ്പിനേഷൻആണ് ഭാരങ്ങൾ അൺനോൺUs ആണ് അങ്ങനെ ആണ് ഞാൻ ഇത് എഴുതിയത് എനിക്ക് ഇങ്ങനെ എഴുതാം മാത്രം എഴുതിയാൽ ഞാൻ പരാമർശിക്കുന്നത് ഗ്ലോബൽ നെ ആണ് കാരണം അവിടെ ഏത് എലമെന്റ്നെ പരാമർശിക്കുന്ന സബ്സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല അത്കൊണ്ട് ഇത് വികസിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്നായി എടുക്കാം ആദ്യത്തെ ഇന്റഗ്രൽ എലമെന്റ് a യുടെ മേലെ ആണ് ഇവിടെH എന്നത് 3 ലോക്കൽ ടെസ്റ്റിംഗ് ന്റെ അടിസ്ഥാനത്തിലാണ് എലമെന്റ്aയുടെ 3 ലോക്കൽ അടിസ്ഥാന ഫങ്ക്ഷൻസ് പക്ഷെ ആദ്യത്തെ ടെർമ് ഗ്ലോബൽ Us അടിസ്ഥാനത്തിൽ ആണ് എഴുതുന്നത് കാരണം എനിക്ക് ഗ്ലോബൽ Us ൽ ആണ് ഇക്വേഷൻസ് വേണ്ടത് അതാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോവുന്നത് അപ്പോൾ ആദ്യത്തെ ടെർമ് എന്തായിരിക്കും ഇവിടെ എത്ര Us ആണ് ഉണ്ടാവുക പിന്നെ എലമെൻറ് a ക്ക് വേണ്ടി വിദ്യാർത്ഥി അതായത് ഗ്ലോബൽ നോഡ്സ് ഇത് എഡ്ജ് ബേസ്ഡ് ആണ് ഗ്ലോബൽ നോഡ്സ് നെ പറ്റിയില്ല സംസാരിക്കുന്നത് ഗ്ലോബൽ എഡ്ജസ് നെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എഡ്ജ് നെ കുറിച്ചും അൺനോൺസ് എഡ്ജസ് ൽ ഉള്ള ഫീൽഡ് ന്റെ ടാൻജൻഷിയൽ കമ്പോണേന്റ്സ് ആണ് ഉം ഉം പൊതുവായത് ആണ് ഇതാണ് Us ഇത് എല്ലാ എലമെന്റ്സ് ലും ഈ ഇക്വേഷൻ ലേക്ക് പോവും അത്കൊണ്ട് എലമെന്റ് aഇന്റഗ്രേറ്റിംഗ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോവുന്ന ആദ്യത്തെ ടെർമ് ഉള്ള ടെർമ് ആണ് അടുത്തതായി എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഈ ബ്രാക്കറ്റ് പൂർത്തിയാക്കാൻ കഴിയണം ഈ ടെർമിൽ ഏത് T ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ ആണ് യോജിക്കുന്നത് അതെ ആണ് a ആണോ b ആണോ വിദ്യാർത്ഥി T 2 a r നെ നമുക്ക് തല്ക്കാലം മറക്കാം അത് എല്ലായിടത്തും ഉണ്ട് ഇവിടെ വന്നു അപ്പോൾ H ടെർമിൽ നിന്നും ഏതാണ് വരുന്നത് ആണ് അടുത്തത് ഇത് അനുസരിച്ചാണ് ഞാൻ H വികസിപ്പിക്കുന്നത് എന്ന് ഓർക്കണം എലമെന്റ് aയുടെ അടിസ്ഥാന ഫങ്ക്ഷൻ ആണ് തുടക്കത്തിൽ നമ്മൾ ചെയ്ത ഷേപ്പ് ഫങ്ക്ഷൻ ഓർമയുണ്ടല്ലോ അടിസ്ഥാന ഫങ്ക്ഷൻ ഒന്നൂടെ കാണിച്ചു തരണോ വിദ്യാർത്ഥി വേണ്ട നല്ലത് അപ്പോൾ ഇത് എന്തായിരിക്കണം വിദ്യാർത്ഥി ഒറ്റ ടൈപ്പ് ന് ഒറ്റ അടിസ്ഥാന ഫങ്ക്ഷൻ ആണ് a വേണ്ടി തന്നിരിക്കുന്ന എഡ്ജിനു ഒരു എലമെന്റിൽ ഒരു ഒറ്റ അടിസ്ഥാന ഫങ്ക്ഷന് ആണ് ഉള്ളത് നമ്മൾ എലമെന്റ് a യുടെ ഉള്ളിൽ ആണ് എലമെന്റ് a യ്ക്ക് ഒരു എഡ്ജ് നമ്പറിൽ ആണ് ഉള്ളത് അത്കൊണ്ട് ലോക്കൽ എഡ്ജ് നമ്പർ പച്ചയിൽ 1 ആണ് ആണ് 3 കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഏത് അടിസ്ഥാന ഫങ്ക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് 3 ചോയ്സ്സ് ഉണ്ട് 012 ഇതിൽ ഏതായിരിക്കും ഇത് 1 ആയിരിക്കും ഇത് കൊണ്ടാണ് കിട്ടാൻ പോവുന്നത് അത്കൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം എലമെന്റ് a യിൽ H എഴുതാൻ പോകുന്നത് ഇങ്ങനെ ആണ് പ്ലസ് എന്താണ് വിദ്യാർത്ഥി 0 0 b യിൽ Hഎന്തിനോടാണ് സമം ആവുന്നത് നമുക്ക് കൊണ്ട് തുടങ്ങാം നമുക്ക് ഇത് ഒരു തവണ കൂടി എഴുതാം ഇവിടെ ചെറിയ ഒരു സൂക്ഷ്മത യുടെ ആവശ്യമുണ്ട് അത് കൊണ്ട് ഇത് കുറച്ചു കൂടി ശ്രദ്ധയോടെ എഴുതാം നമുക്ക് ആദ്യം എല്ലാം ലോക്കൽ എഡ്ജസ്ന്റെ അടിസ്ഥനത്തിൽ എഴുതാം ലോക്കൽ എഡ്ജസ് local എഡ്ജസ് സിമ്പിൾ ആണ് ഇതാണ് അത് പോലെ ഇത് ആവും വിദ്യാർത്ഥി 2 2 ok ഇത് ലോക്കൽ ന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇനി എനിക്ക് ലോക്കൽ Us നെ ഗ്ലോബൽ ആയി മാറ്റി സ്ഥാപിക്കണം അത്കൊണ്ട് ആദ്യത്തെതിന് ഞാൻ എന്ത് എഴുതും എനിക്ക് ഇത് ഇങ്ങനെ എഴുതാം രണ്ടാമത്തേത് ഇങ്ങനെയും അപ്പോൾ ഏതാണ് U ന് അനുബന്ധം ആയിട്ട് ഉള്ളത് വിദ്യാർത്ഥി 4 അടുത്തത് അവസാനമായി ഇതാണ് അവസാനത്തെ ടെർമ് എങ്ങാനെ ആണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥി 2 to 4 ശരിയാണ് ഇത് 1 ന്റെ ആണ് ഇനി 0 എങ്ങനെ ആണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ചെറിയ ഒരു തെറ്റ് ഉണ്ട് കൺവെൻഷൻ ചെറുതിൽ നിന്നും വലുതിലേക്കും ആണ് ഉള്ളിൽ നമ്മൾ 0 അഥവാ 2 ൽ നിന്ന് പോവുകയായിരുന്നു നമ്മൾ ചെറിയ ലോക്കൽ നോഡ് നമ്പർ ൽ നിന്നും വലിയ ലോക്കൽ നോഡ് നമ്പർ ലേക്ക് ആണ് പോയത് അതാണ് കൺവെൻഷൻ ഇപ്പോൾ എന്താണ് കൺവെൻഷൻ കൺവെൻഷൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പോവുന്നു ഗ്ലോബലും പിന്നെ അതെ കൺവെൻഷൻ ഞാൻ അനുമാനിച്ചു വിദ്യാർത്ഥി അനുമാനിച്ച കൺവെൻഷൻ ലോക്കൽ നും റൂറൽ നും പ്രയോഗിക്കാൻ പോവുകയാണ് എന്ന് വിചാരിക്കുന്നു അത് എന്റെ ഇഷ്ടം ആണ് വിദ്യാർത്ഥി നമുക്ക് ഇത് മാറ്റാൻ പറ്റുമോ നമുക്ക് ഇത് പിന്നീട് മാറ്റാം വിദ്യാർത്ഥി ഒന്ന് തന്നെയാണോ ഉപയോഗിക്കുന്നത് അതെ ഒന്ന് തന്നെയാണ് അപ്പോൾ ഗ്ലോബൽ എഡ്ജ് നമ്പർ 52 to 4 ആണ് പോയിന്റ് ചെയ്യുന്നത് ദിശ ഇങ്ങനെ ആണ് അപ്പോൾ ഈ ചെറുത് തൊട്ട് വലുത് വരെ തന്നെയാണോ വിദ്യാർത്ഥി ഇപ്പോ അല്ല അതെ അതും ഇപ്പോൾ മാറിയിരിക്കുന്നു വിദ്യാർത്ഥി അത്കൊണ്ട്2 0 അതെ ഇനി നമുക്ക് നമ്മുടെ ശരിക്കുമുള്ള കൺവെൻഷൻ ലേക്ക് തിരിച്ചു പോവാം അത് വെറും സൈക്ലിക് ആയിരുന്നു ഇതാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കൺവെൻഷൻ സ്ഥിരത ഉള്ളതാണ് അത് ലോക്കൽ എഡ്ജ് കൺവെൻഷൻ ആണ് ലോക്കൽ എഡ്ജ് കൺവെൻഷൻ ലോക്കൽ edge convention സൈക്ലിക് വഴിയിലൂടെ പോവുകയായിരുന്നു എന്റെ ഗ്ലോബൽ എഡ്ജ് കൺവെൻഷൻ ചെറിയ നോഡിൽ നിന്ന് വലിയ നോഡ് ലേക്കാണ് അത്കൊണ്ട് 5 ന്റെ ദിശ 2 to 4 ആണ് ഗ്ലോബൽ2 to ഗ്ലോബൽ 4 വിദ്യാർത്ഥി അത് ചെറുതായിരിക്കും ഇത് പ്ലസ് ആയി മാറും അതിനാൽ ആണ് ഇവിടെ എനിക്ക് കിട്ടും സ്ഥിരതയുള്ളതാണ് കാരണം ലോക്കൽ Us ഉം ഗ്ലോബൽ Us ഉം യോജിക്കണം വിദ്യാർത്ഥി ചിഹ്നം മാറും ചിഹ്നം ഗ്ലോബൽ ന് എതിർദിശയിൽ ആയിരിക്കും ന് വേണ്ടി നമുക്ക് നോക്കാം വിദ്യാർത്ഥി അതെ ശരിയാണ് ന് മൈനസ് ചിഹ്നം ആയിരിക്കും മറ്റേതിനൊക്കെ വിദ്യാർത്ഥി അല്ല അല്ല ടെസ്റ്റിംഗ് ഫങ്ക്ഷൻസ് അവയാണ് വിദ്യാർത്ഥി അനുമാനം ഇല്ല നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതാൻ തുടങ്ങുമ്പോൾ ഞാൻ സബ്സ്റ്റിട്യൂട്ട് ചെയ്ത HUs ന്റെ കാര്യത്തിൽ സ്പഷ്ഠമായിരിക്കണം അത്കൊണ്ടാണ് ഞാൻ ചിഹ്നങ്ങൾ ശരിയാവാനുള്ള മാർഗം ഉറപ്പ് വരുത്തുന്നത് അതിനാൽ ശരിയാണ് എതിർദിശയിൽ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ലോക്കൽ നെയും ഗ്ലോബൽ നെയും താരതമ്യം ചെയ്യുകയാണ് അത് രണ്ടും ഒരേ രീതിയിൽ ആണോ പോയിന്റ് ചെയ്യുന്നത് ന് മൈനസ് ചിഹ്നം ആണ് എലമെന്റ് a യിലെ അതെ ദിശയിൽ ആണ് എലമെന്റ് b യുടെ കാര്യത്തിൽ 2 ഉം 0 യും ഒരേ ദിശയിൽ ആണ് 3 ഉം 1 ഉം ഒരേ ദിശയിൽ ആണ് 5 എതിർദിശയിലും അത് കൊണ്ടാണ് എനിക്ക് മൈനസ് ചിഹ്നം കിട്ടിയത് വിദ്യാർത്ഥി നമ്മൾ എന്തിനാണ് ലോക്കൽ നും ഗ്ലോബൽ നും വ്യത്യസ്ത കൺവെൻഷൻസ് എടുക്കുന്നത് ഒന്ന് തന്നെ ഉപയോഗിച്ചൂടെ ഒന്ന് തന്നെ ഉപയോഗിക്കാം പക്ഷെ ഈ മൈനസ് സൈൻ ന്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഏത് കൺവെൻഷൻസ് എടുത്താലും ചില മൈനസ് സൈൻസ് ഉണ്ടാവും അത് പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ മൈനസ് സൈൻസ് ൽ നിന്ന് ഒരു രക്ഷപ്പെടൽ സാധ്യമല്ല വിദ്യാർത്ഥി അവിടെ നമ്പറിങ്ങ്മാറും നമ്പറിങ്ങ് മാറും അതിനാൽ ആദ്യത്തെ ടെർമ് ഈ ഇടത് വശത്തേക്ക് a യുടെ മുകളിൽ ആയി തിരിച്ചു വരും നമ്മൾ ഈ എഴുതിയത് ശരിയാണോ എന്ത് കൊണ്ട് വന്നു കാരണം അതാണ് ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ അത് ആദ്യത്തെ ടെർമിൽ നിന്ന് ഇവിടെ വന്നതാണ് എന്തായിരിക്കും അടുത്ത ടെർമ് വിദ്യാർത്ഥി ഇവ b ആണോ അല്ല ഞാൻ a ചെയ്തുകഴിഞ്ഞില്ല ഇത് ഒന്ന് തന്നെയാണ് എന്താണ് എനിക്ക് ഉള്ളത് വിദ്യാർത്ഥി T 0 വളരെ നല്ലത് ഇനി എന്താണ് എനിക്ക് ഉള്ളത് വിദ്യാർത്ഥി പ്ലസ് ഇത് എന്തായിരിക്കും ഇതാണ് ഇവിടെ ഉള്ള ആദ്യത്തെ ആൾ ഇതാണ് ഞാൻ a യിൽ ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ ആയി ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ ഉള്ള രണ്ടാമത്തെ ടെർമ് എലമെന്റ് a യിൽ 0 ആണ് അത്കൊണ്ടാണ് ഞാൻ സംഭാവന ചെയ്യാതിരുന്നത് ഇപ്പോൾ ഞാൻ എലമെന്റ് b യിലെ ഇന്റഗ്രൽ ലേക്ക് മാറുകയാണ് എന്തായിരിക്കും ആദ്യത്തെ വാരിയബിൾ എന്താണ് ഇപ്പോൾ ടെസ്റ്റിംഗ് പാർട്ട് എന്താണ് അടുത്തത് പ്ലസ് അടുത്ത ടെർമ് വിദ്യാർത്ഥി U 3 അതിനാൽ ഇത് എനിക്ക് ഇടത് വശം തരുന്നു അപ്പോൾ ഇടത് വശത്തു ഒരു ഇക്വേഷൻ എനിക്ക് എത്ര വരിയബ്ൾസ് ൽകിട്ടും വിദ്യാർത്ഥി 5 5 ശരിയാണ് ഞാൻ എഡ്ജ് നമ്പർ 5 എടുക്കുമ്പോഴാണ് ഇത് എലമെന്റ് ൽ സംഭവിച്ചത് കാരണം എഡ്ജ് നമ്പർ 5രണ്ട് എലമെന്റ്സ്നും പൊതുവായത് ആണ് ഞാൻ ഗ്ലോബൽ എഡ്ജ് നമ്പർആണ് എടുത്തതെങ്കിൽ ഏതോക്കെ വാരിയബിൾസ് ആയിരിക്കും പ്രത്യക്ഷപ്പെടുക ഗ്ലോബൽ എഡ്ജ് നമ്പർ 1ൽ ഏതോക്കെ വരിയബിൾസ് ആണ് വരുന്നത് അവിടെ ഇല്ല വിദ്യാർത്ഥി എഡ്ജസ് അതെ എഡ്ജസ് ഒരു എഡ്ജ് പങ്കിടാൻ പറ്റുന്നത് പരമാവധി 2 elements നോടാണ് അതിനാൽ ഒരു ഇക്വേഷൻലെ നോൺ സീറോ എന്ടറിസ് ന്റെ പരമാവധി എണ്ണം 2 കൊണ്ട് മാത്രമേ പങ്കിടാൻ ആവൂ ഏത് എഡ്ജിലും 10000 എലമെന്റ്സ് ഉണ്ടെങ്കിലും അത്കൊണ്ട് ഒരു ഇക്വേഷനിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന വാരിയബിൾസ് ന്റെ പരമാവധി എണ്ണം 5 ആണ് 1 പൊതുവായത് പ്ലസ് 2 മറ്റേതിൽ നിന്നും പിന്നെ 2 മറ്റേ 5 ൽ നിന്നും അതിനാൽ ഈ സ്പാർസ് മാട്രിക്സ് ന്റെ ബാൻഡ് വിഡ്ത്ത് 5 ൽ കൂടില്ല അവിടെ എത്ര എലമെന്റ്സ് ഉണ്ടെങ്കിലും ഏത് എഡ്ജ് ഉം എടുക്കാം ഓരോ ഇക്വേഷനിലും 5 എങ്കിലും ഉണ്ടാകും ഞാൻ ബോർഡർ ബൌണ്ടറി എഡ്ജിൽ ആണെങ്കിൽ എത്ര ഇക്വേഷൻസ് പ്രത്യക്ഷപ്പെടും 3 ഈ സ്പാർസ് മാട്രിക്സ് sparse matrixന്റെ ബാൻഡ് വിഡ്ത്ത് ഒരിക്കലും 5 കടക്കില്ല മെഷ് ന്റെ വലുപ്പം പരിഗണിക്കാതെ അതാണ് FEM ന്റെ യഥാർത്ഥ ശക്തി ഇത് എഴുതാൻ കുറച്ചു കൂടി സൌകര്യപ്രധമായ വഴിയുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് കോഡ് ചെയ്യാൻ എളുപ്പമുള്ള വഴിയിൽ എഴുതാൻ ശ്രമിച്ചുനോക്കാം ഞാൻ Axb എഴുതാൻ ശ്രമിക്കുകയാണ് ഞാൻ ഒരു ഇക്വേഷൻ എഴുതാൻ ശ്രമിച്ചു നോക്കാം അതിനാൽ ഞാൻ ഈ പ്രോബ്ലംത്തിൽ എഴുതും അവിടെ 5 Us ഉണ്ട് അനുബന്ധമായ as ഉം എഴുതേണ്ടതുണ്ട് ആദ്യത്തെ ടെർമ് എനിക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെ ആണ് അതിനാൽ നമുക്ക് ടെർമ് നോക്കാം അവിടെ ടെർമ് മാത്രമേ ഉള്ളൂ ഈ ഇന്റഗ്രൽ a യുടെ മുകളിൽ ആണ് ഇത് എന്തിനും ഏതിനും ഇടയിൽ ഉള്ള ബന്ധം ആണ് ഇവിടെ 2 ഉണ്ട് അവിടെ 1 ഉം ഇത് എനിക്ക് 21 എന്ന് എഴുതാം ഇത് എന്താണ് പറയുന്നത് സൂപ്പർസ്ക്രിപ്റ്റ് a എലമെന്റ് aelement aനെ സൂചിപ്പിക്കുന്നു എലമെന്റ് a യിൽ നിങ്ങൾ ലോക്കൽ ബേസിസ്1 ന്റെയും ലോക്കൽ ബേസിസ്2 ന്റെയും ഡോട്ട് പ്രോഡക്റ്റ്ആണ് എടുക്കുന്നത് അതാണ് അർഥം ആണ് ടെർമ് A യിൽ നിന്നാണ് വരാൻ പോവുന്നത് ഇത് b യുടെ മേലെ ഉള്ള ഇന്റഗ്രൽ ആയി എഴുതും10 അടുത്തതായി വരുന്നത് ആണ് അത് ആകും അടുത്തത് ആണ് ഇത് എന്താവും വിദ്യാർത്ഥി മൈനസ് ഞാൻ ഇത് കൂടിക്കലരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ കോമ്മ ഇടും അവസാനമായി ആണ് ആയി എഴുതാൻ കഴിയും വിദ്യാർത്ഥി ലോക്കൽ ഡൈമൻഷൻ അല്ലെ രണ്ടും ലോക്കൽ ആണ് കാരണം ഞാൻ 2 1 അഥവാ 0 2 1 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അത് വെറും 01 അഥവാ 2 ആണ് അവ ലോക്കൽ എഡ്ജ് നമ്പറുകൾ ആണ് ഈ മുഴുവൻ ഇക്വേഷനുംഗ്ലോബൽ എഡ്ജസ്ന് വിധേയമായി എഴുതാമായിരുന്നു അത് എന്റെ സൌകര്യം ആണ് ഇത് ചെയ്യാൻ കുറെ വഴികൾ ഉണ്ട് പക്ഷെ ഇത് ഇങ്ങനെ എഴുതാൻ കാരണംനിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ കോഡ് ചെയ്യും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും ഇൻപുട് ആയി 3 കാര്യങ്ങൾ എടുക്കുന്ന ഒരു ഫങ്ക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും ഏത് എലമെന്റ് ഏത് ലോക്കൽ എഡ്ജ് നമ്പറുകൾ അത് ഇന്റഗ്രൽ ചെയ്യുംഇവിടെ A term നിങ്ങൾ പോപുലേറ്റ് ചെയ്യും ഇതാണ് നിങ്ങളുടെ ഒരു വരി തുല്യം ആകും എഡ്ജ് 5 ഇന്റീരിയർ ൽ ആണ് ഇത് എല്ലാം എനിക്ക് ഇവിടെ കിട്ടില്ല ഇത് എഡ്ജ് നമ്പർ 5 ലൂടെ ഉള്ള ടെസ്റ്റിംഗ് ആയിരുന്നു ഇത് b 5 നോട് സമം ആവുംഅതെ ഒരു ഇക്വേഷൻ ഞാൻ എഴുതിയതാണ് ഇടത് വശം ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻ ലും സ്കാറ്റർഡ് ഫീൽഡ് ഫോർമുലേഷൻ ലും ഒന്ന് തന്നെയാണ് വിദ്യാർത്ഥി b മാത്രം മാറും b എവിടെയാണോ അത് മാറും ഇത് സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷൻ ൽ ആണെങ്കിൽ നമ്മൾ മുമ്പത്തെ മോഡ്യൂൾ ൽ പറഞ്ഞത് പോലെ ചിലപ്പോൾ നമുക്ക് Us ന്റെ നമ്പർ വികസിപ്പിക്കേണ്ടിയുംUs ന്റെ വ്യത്യാസത്തിന് അനുസൃതമായി ഒരു ഇക്വേഷൻ കൂടി കൂട്ടിച്ചേർക്കേണ്ടിയും വരും അത് ഇൻസിഡന്റ് ഫീൽഡ് നോട് തുല്യം ആയിരിക്കും നമുക്ക് ഇത് ലളിതം ആക്കാം ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻ നെ പറ്റി ചിന്തിക്കാം എവിടെ നിന്നാണ് എനിക്ക് നോൺ സീറോ RHS കിട്ടുക എന്താണ് പോസ്സിബിലിറ്റീസ് എപ്പോഴാണ് b നോൺ സീറോ ആവുന്നത് ഇതിന്റെ എഡ്ജ് നമ്പർ 1234 ആണ് അവ ബൌണ്ടറി യിൽ ആണ് ഇത് 2 എലമെന്റ്സ് ന്റെ ഉദാഹരണം പോലെയുള്ള വളരെ നിസ്സരമായ ഒരു കാർട്ടൂൺ പോലെയാണ് ഇവിടെ കുറെ ബൌണ്ടറി എഡ്ജസ് ഉണ്ട് 1234 ഇതിൽ 5 മാത്രം ആണ് ഇന്റീരിയർ ൽ യഥാർത്ഥ ജീവിത സാഹചര്യത്തിൽ ഇത് മറ്റൊരു തരത്തിൽ ആണ് കൂടുതൽ എഡ്ജസും ഇന്റീരിയർ ആയിരിക്കും ബൌണ്ടറി എഡ്ജസ് ന്റെ എണ്ണം കുറവായിരിക്കും അത്കൊണ്ട് ഇവിടെ RHS ൽ നോൺ സീറോ ക്വാണ്ടിറ്റീസ് തരുന്ന എല്ലാ ടെർമ്സും വരുന്നത് 1234 ൽ നിന്നാണ് ഇത് എഴുതാനുള്ള ഫോം എന്താണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു ഇങ്ങനെ ആണ് നിങ്ങൾ നിങ്ങളുടെ 2D വെക്ടർ FEM ൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥി എന്ത്കൊണ്ടാണ് പങ്കിടുന്ന എഡ്ജ് 0 ആവുന്നത് എന്ത്കൊണ്ടായിരിക്കും വിദ്യാർത്ഥി എന്ത് കൊണ്ട് 0 ആവും നമുക്ക് ഇതിലേക്ക് തിരിച്ചു പോയി നോക്കാം നമുക്ക് ഇത് ലളിതം ആക്കാം ഇവിടെ നോക്കാം RHS ലെ വീക് ഫോം ബൌണ്ടറി യിലെ എഡ്ജുകളിൽ മാത്രം ആണ് വിദ്യാർത്ഥി ശരിയാണ് അതിനാൽ ബൌണ്ടറി യിലെ എഡ്ജ് ന് നമ്മൾ എടുത്തിരുന്നത് ആണ് ഇപ്പോൾ ഇന്റീരിയർ ൽ ആണ് ബൌണ്ടറി യിൽ എന്താണ് ഇത് ടാൻജൻഷിയൽ ആണോ അഥവാ തികച്ചും നോർമൽ ആണോ വിദ്യാർത്ഥി തികച്ചും നോർമൽ ശരിയാണ് അതിനാൽ എല്ലാ എക്സ്പ്രഷൻസ് ഉം ഉള്ള ഈ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയി മാറും RHS ലേക്കുള്ള സംഭാവന ആ എഡ്ജ് നോട് ബന്ധപ്പെട്ട ടെസ്റ്റിംഗ് ഫങ്ക്ഷൻസിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ ഇന്റീരിയർ ലുള്ളതിന് സമാനമായ 0 ഡോട്ട് പ്രോഡക്റ്റ് നൽകും അതിന് വേണ്ടി നിങ്ങൾ കുറച്ചു അൽജിബ്രാ ചെയ്യേണ്ടി വരും വിദ്യാർത്ഥി അത്കൊണ്ട് സ്പാർസ് ൽ അതെസ്പാർസ് ൽ RHS ടെർമുകൾ നോൺ സീറോആവുന്നത് ബൌണ്ടറിയിലെ എഡ്ജുകളിൽ നിന്ന് മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം 0 ആവും മൈനസ് ചിഹ്നങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടി RHS ൽ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ 2D ക്ക് വേണ്ടിയുള്ള നോഡ് ബേസ്ഡ് FEM ചെയ്യുമ്പോൾ ഈ മൈനസ് ചിഹ്നങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തുകയില്ല പക്ഷെ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ നോഡ് ബേസ്ഡ് FEM ൽ അറിയപ്പെടുന്ന ചില അപാകതകൾ ഉണ്ട് ഒരു പ്രശ്നം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇന്റെർണൽ റിസോനൻസസ് ഭൌതികമല്ലാത്ത ചില വ്യാജ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഗണിതശാസ്ത്രപരമായി അവ പ്രോബ്ലംത്തെ നശിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടി എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ശരിക്കും അങ്ങനെയല്ല ഈ വെക്ടർ ബേസ്ഡ് FEM അതിനെ ഇല്ലാതാക്കുന്നു